പോയിന്റിംഗ് വെക്റ്റർ പരിഹരിച്ച ഉദാഹരണങ്ങൾ മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ വൈദ്യുതകാന്തിക മണ്ഡലങ്ങൾക്കായി പോയിന്റിംഗ് വെക്റ്റർ അവതരിപ്പിച്ചു ഇത് 1 ഓവർ mu 0 E ക്രോസ് B ക്ക് തുല്യമാണെന്നും ഒരു യൂണിറ്റ് സമയത്തിനായുള്ള ഊർജ്ജ പ്രവാഹത്തിന് തുല്യമാണെന്നും ഒരു യൂണിറ്റ് സമയത്തിന് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രദേശത്തെ ഊർജ്ജത്തിന് തുല്യമാണെന്നും കാണിച്ചു ഈ ഊർജ്ജം എന്താണ് ചെയ്യുന്നത് ഇത് ഒന്നുകിൽ വർദ്ധിക്കുന്നതായി നമ്മൾ മുൻ പ്രഭാഷണത്തിൽ കണ്ടു അതായത് ഉള്ളിലെ ചാർജുകളുടെ മെക്കാനിക്കൽ ഊർജ്ജം അല്ലെങ്കിൽ നെറ്റ് വൈദ്യുതകാന്തിക ഊർജ്ജം വർദ്ധിക്കുന്നു 10EBSഊർജ്ജ പ്രവാഹംവിസ്തീർണ്ണം X സമയം അതിനാൽ ഇത് ds പ്രൈം ഡോട്ട് S ന് തുല്യമായി പുറത്തുവരുന്നു നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഇതുപോലുള്ള ഒരു വോളിയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ds പ്രൈം അകത്തേക്കുള്ള ദിശയിലാണ് തുടർന്ന് നമ്മൾ ഇതിനുള്ളിലെ ഊർജ്ജത്തെക്കുറിച്ചും മെക്കാനിക്കൽ എനർജിയെക്കുറിച്ചും സംസാരിച്ചു നിങ്ങൾ മെക്കാനിക്കൽ ഊർജ്ജം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഒടുവിൽ ജൂൾ ഹീറ്റിംഗ് ആകുന്നു കാരണം ഈ ചാർജുകൾ ചുറ്റും കറങ്ങാൻ തുടങ്ങുന്നു തുടർന്ന് ചലനാത്മക ഊർജ്ജം നേടുകയും പിന്നീട് അത് താപമായി നഷ്ടപ്പെടുകയും ചെയ്യും ഈ പ്രഭാഷണത്തിൽ ഇത് ശരിയാണെന്ന് കാണിക്കാൻ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ ചെയ്യാൻ പോകുന്നു ആദ്യ ഉദാഹരണമായി നമുക്ക് ഒരു കട്ടിയുള്ള കറന്റ് വഹിക്കുന്ന വയർ എടുക്കാം ഇത് വളരെ സാധാരണമായ ഒരു ഉദാഹരണമാണ് അത് ആരം a ഉള്ളതും ഒരു കറന്റ് I വഹിക്കുകയും ചെയ്യുന്നു ഈ റെസിസ്റ്റിവിറ്റി rho ആണെന്ന് കരുതുക ഇപ്പോൾ ഇതിനകത്തെ വൈദ്യുത മണ്ഡലം E എന്നത് rho J എന്ന് ലഭിക്കും ഇത് ഒരു അറിയപ്പെടുന്ന ഓംസ് നിയമ ഫലമാണ് ഇത് rho I ഓവർ pi a സ്ക്വയർ അല്ലാതെ മറ്റൊന്നുമല്ല ഇതാണ് വൈദ്യുത മണ്ഡലം EρjρIa2 വൈദ്യുത ഫീൽഡിൻറെ ദിശ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയിലാണ് പുറത്തെ അതിർത്തി അവസ്ഥയിൽ ഉപരിതലവും E ക്ക് സമാനമായിരിക്കും അതിനാൽ ഇത് E ആണ് കാന്തികക്ഷേത്രം B എങ്ങനെയാണ് ഇത് ഉപരിതലത്തിൽ mu 0 ഓവർ 2 പൈ a I എന്നതിന് തുല്യമാണ് കറന്റ് മുകളിലേക്ക് പോകുന്നതിനാൽ കാന്തികമണ്ഡലം ഈ ദിശയിലൂടെ പോയി ഇതിലൂടെ വരുന്നു വൈദ്യുത മണ്ഡലവും മുകളിലേക്ക് പോകുന്ന ദിശയിൽ ആകുന്നു മുകളിലേക്ക് പോകുന്നു അതിനാൽ ഇത് B ആണ് ഞാൻ ദിശകൾ കാണിച്ചിരിക്കുന്നു B0I2πa അതിനാൽ പോയിന്റിംഗ് വെക്റ്റർ S എന്നാൽ 1 ഓവർ mu 0 E ക്രോസ് B ആയിരിക്കും അതിൻറെ ദിശ വോളിയത്തിനകത്തേക്ക് പോകുന്ന ദിശയിൽ കാണാൻ കഴിയും അതിൻറെ മൂല്യം 1 ഓവർ mu 0 മടങ്ങ് rho I ഓവർ പൈ a സ്ക്വയർ തവണ mu 0 I ഓവർ 2 പൈ a ആയിരിക്കും നമുക്ക് കുറച്ച് പദങ്ങൾ ഒഴിവാക്കാം അങ്ങനെ അവസാനം നിങ്ങൾക്ക് rho I സ്ക്വയർ ഓവർ 2 പൈ സ്ക്വയർ a ക്യൂബ് ലഭിക്കുകയും E ക്രോസ് B എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോയിന്റിംഗ് വെക്റ്ററിന്റെ ദിശ വോളിയത്തിലേക്ക് പ്രവേശിക്കുന്നതായി കാണുകയും ചെയ്യാം S10EB10ρIa20I2πaI222a3n അതിനാൽ ഈ വയറിന്റെ വോളിയത്തിലേക്ക് ഈ ഊർജ്ജം ഒഴുകുന്നു വാസ്തവത്തിൽ വയറിന്റെ വശത്തുകൂടി ഊർജ്ജ പ്രവാഹം ഉണ്ടാക്കുന്ന വയറിന് ലംബമായി ഒരു E ഫീൽഡ് നൽകുന്ന ഉപരിതല ചാർജുകളും ഉണ്ട് എന്നാൽ അത് നമുക്ക് ആവശ്യത്തിലധികം വിവരങ്ങൾ നൽകുന്നു ഇവിടെ മെക്കാനിക്കൽ ഊർജ്ജം അല്ലെങ്കിൽ ഉള്ളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപം യഥാർത്ഥത്തിൽ പോയിന്റിംഗ് വെക്റ്റർ കൊണ്ടുവന്നതാണെന്ന് കാണിക്കാൻ നമുക്ക് ഇത് മതിയാകും അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഈ വയർ എടുക്കുന്നു അതിൽ ഒഴുകുന്ന ഒരു കറന്റ് I ഉണ്ട് ഇതാണ് പോയിന്റിംഗ് വെക്റ്റർ അത് ഈ വയറിലേക്ക് ഊർജ്ജം എടുക്കുന്നു S എന്നത് rho I സ്ക്വയർ ഓവർ 2 പൈ സ്ക്വയർ a ക്യൂബ്സ് ആയിരിക്കും ഇത് ഒരു യൂണിറ്റ് സമയത്തിന് ഒരു യൂണിറ്റ് പ്രദേശത്തിന് ഉള്ള ഊർജ്ജ പ്രവാഹമാണെന്ന് ഓർക്കുക അതിനാൽ ഞാൻ ഈ വയറിന്റെ ഒരു യൂണിറ്റ് ദൈർഘ്യം എടുത്ത് ആ യൂണിറ്റ് ദൈർഘ്യത്തിലേക്ക് എത്ര ഊർജ്ജം ഒഴുകുന്നു എന്ന് നോക്കുന്നതാണ് അതിനാൽ ഒരു യൂണിറ്റ് ദൈർഘ്യത്തിൽ അകത്തേക്ക് ഒഴുകുന്ന ഊർജ്ജം നമുക്ക് S മടങ്ങ് 2 പൈ a തവണ യൂണിറ്റ് ദൈർഘ്യം അതായത് 1 എന്നെഴുതാവുന്നതാണ് അതിനാൽ ഇവിടെ 2 ഒഴിവാക്കി rho I സ്ക്വയർ ഓവർ പൈ a സ്ക്വയർ ആണ് ലഭിക്കുക ഇത് ഒരു യൂണിറ്റ് ദൈർഘ്യത്തിൽ ഒഴുകുന്ന ഒരു ഊർജ്ജമാണ് അതിനെ പ്രതിരോധം rho ഓവർ പൈ a സ്ക്വയർ എന്നാൽ rho യെ വയറിൻ്റെ വിസ്തീർണ്ണം കൊണ്ട് ഹരിക്കണം ഇവിടെ ദൈർഘ്യം 1 ആയിരിക്കും അതിനാൽ ഇത് പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ദൈർഘ്യത്തിലുള്ള I സ്ക്വയറിന് തുല്യമാണ് ഇതാണ് അകത്തേക്ക് ഒഴുകുന്ന ഊർജ്ജം കറന്റ് സ്ഥിരതയുള്ളതിനാൽ ഞാൻ ഊർജ്ജ ബാലൻസ് സമവാക്യത്തിലേക്ക് തിരിച്ചു പോയാൽ വൈദ്യുതകാന്തിക ഊർജ്ജത്തിൽ മാറ്റമുണ്ടാവുകയില്ല അതിനാൽ ഈ രണ്ടാമത്തെ പദം 0 എന്നത് ഊർജ്ജം അകത്തേയ്ക്ക് ഒഴുകുന്നതിന് തുല്യമാണ് SI222a3ഒഴുകുന്ന ഊർജ്ജംവിസ്തീർണ്ണം X സമയം അകത്തേക്ക് ഒഴുകുന്ന ഊർജ്ജംനീളംS 2πaI2a2RI2നീളം dWdt0അകത്തേക്ക് ഒഴുകുന്ന ഊർജം ജൂൾ ഹീറ്റിംഗിൽ നിന്ന് ഈ പദം R I സ്ക്വയറല്ലാതെ മറ്റൊന്നുമല്ലെന്ന് എനിക്കറിയാം ഇവിടെ വലതു വശവും R I തന്നെ ആകുന്നു അതിനാൽ ഇവിടെ ഉപയോഗിക്കുന്ന ഊർജ്ജം അല്ലെങ്കിൽ കമ്പിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപം യഥാർത്ഥത്തിൽ ഈ വൈദ്യുതകാന്തിക മണ്ഡലങ്ങളിലൂടെയാണ് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ കാണിച്ചു ഈ ആശയത്തിന്റെ രണ്ടാമത്തെ പ്രകടനമെന്ന നിലയിൽ ഞാൻ ഒരു സോളിനോയിഡ് എടുക്കട്ടെ ഇത് രണ്ടാമത്തെ ഉദാഹരണമാണ് ഉപരിതല വൈദ്യുത പ്രവാഹം K ഉള്ള ഒരു സോളിനോയിഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനാൽ ഉള്ളിലെ ഫീൽഡ് B എന്നത് mu 0 K ആണ് ഒരു യൂണിറ്റ് ദൈർഘ്യത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ക്രോസ് സെക്ഷൻറെ ആരം a ആയിരിക്കും അതിനാൽ ഊർജ്ജം പൈ a സ്ക്വയർ മടങ്ങ് ഇവിടെ ദൈർഘ്യം 1 ആണ് mu 0 സ്ക്വയർ K സ്ക്വയർ ഓവർ 2 mu 0 ആയിരിക്കും അപ്പോൾ സംഭരിച്ച ഊർജ്ജത്തിനെ നമുക്ക് പൈ a സ്ക്വയർ mu 0 K സ്ക്വയർ ഓവർ 2 എന്നെഴുതാവുന്നതാണ് B0K സംഭരിച്ച ഊർജ്ജംനീളംa202K220a20K22 നമുക്ക് ഇപ്പോൾ K എന്ന കറൻറിനെ K ഡോട്ട് എന്ന നിരക്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം ഉള്ളത് കുറച്ചു സമയത്തിനുള്ളിൽ പൂജ്യത്തിലേക്ക് അ പോകുന്നു ഇപ്പോൾ ഞാൻ അത് സ്വിച്ച് ഓഫ് ചെയ്താൽ എനിക്ക് അത് പല വിധത്തിൽ മോഡുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നറിയാം എന്നാൽ ഈ ഇൻഡക്ടൻസ് L ആണെന്നും കോയിലിന്റെ പ്രതിരോധം R ആണെന്നും കരുതുക അപ്പോൾ K എന്നത് K 0 e റെയ്സ്സ് ടു മൈനസ് R ഓവർ L ആയി കുറയുന്നു പക്ഷേ അതല്ല K എന്നത് സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുന്നു എന്നതാണ് നമ്മുടെ ആശങ്ക K≅K0e RLt K സ്വിച്ച് ഓഫ് ആകുമ്പോൾ കാന്തികക്ഷേത്രവും മാറുന്നു അതിനാൽ കാന്തികക്ഷേത്രം താഴേക്ക് പോകുന്നു എന്നാലത് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫാരഡെയുടെ നിയമപ്രകാരം ഡെൽ ക്രോസ് E എന്നാൽ മൈനസ് d B d t ക്ക് തുല്യമാകുന്നു അത് ഒരു വൈദ്യുത മണ്ഡലം ഉണ്ടാക്കും ഫീൽഡിലെ മാറ്റത്തെ എതിർക്കാൻ ഈ ഫീൽഡ് ശ്രമിക്കും അതിനാൽ അത് ഒരേ ദിശയിൽ ഒരു ഫീൽഡ് ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കും അതിനാൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുത മണ്ഡലം വലതുവശത്ത് അകത്തേക്ക് പോകുന്നു ഇടതുവശത്ത് കൂടി പുറത്തേക്ക് വരികയും ചെയ്യും ഞാൻ അത് ഈ സോളിനോയിഡിൽ കാണിക്കുന്നു സ്റ്റോക്സ് സിദ്ധാന്തം ഉപയോഗിച്ച് എനിക്ക് ഉപരിതലത്തിൽ 2 പൈ a തവണ E എന്നതിനെ പൈ a സ്ക്വയർ ഫ്ലക്സ് ൻറെ സമയത്തിനനുസരിച്ചുള്ള മാറ്റം B ഡോട്ട് എന്നതിന് തുല്യമായെഴുതാം ദിശകൾ നോക്കിക്കൊണ്ട് നമ്മൾ മൈനസ് അടയാളം ഇതിനകം ശ്രദ്ധിച്ചിരുന്നു അതിനാൽ ഇരുവശത്തും പൈ a എന്നിവ ഒഴിവാക്കി E എന്നാൽ നമുക്കു ലഭിക്കുന്നത് a B ഡോട്ട് ഓവർ 2 ആണ് ഇത് a mu 0 ഓവർ 2 K ഡോട്ട് എന്നതിനു തുല്യമായിരിക്കും അതാണ് അകത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് അതിനാൽ ഉപരിതലത്തിൽ തന്നെ ഞാൻ അത് പുറത്ത് ചെയ്യുന്നു ഉള്ളിലെ ഫീൽഡും ഒന്നുതന്നെയായിരിക്കും കാരണം ഇലക്ട്രിക് ഫീൽഡിൻറെ സമാന്തര ഘടകം എല്ലായ്പ്പോഴും സമാനമായിരിക്കും 2πaEπa2dBdt or Ea2dBdta02dKdt ഞാൻ സോളിനോയ്ഡ് അല്പം വലുതാക്കി വരയ്ക്കുന്നു എനിക്ക് ഇപ്പോൾ ഉള്ളത് സോളിനോയിഡിൻറെ ഉപരിതലത്തിൽ ഇവിടെ B ഫീൽഡാണ് ഇവിടെ E ഫീൽഡ് പോകുന്നു അതിനാൽ E ക്രോസ് B പുറത്തേക്ക് പോകുന്നു ഇത് S വെക്റ്റർ ആണ് അത് 1 ഓവർ mu 0 E ക്രോസ് B ക്ക് തുല്യമാണ് ഇതിനർത്ഥം ഇപ്പോൾ ഊർജ്ജം ഈ വോളിയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അതിന്റെ മൂല്യം 1 ഓവർ mu 0 E നമ്മൾ ഇപ്പോൾ കണക്കുകൂട്ടിയ a mu 0 by 2 K ഡോട്ട് കൂടാതെ B നമ്മൾ ഇതിനകം കണ്ട mu 0 K ആയിരിക്കും ഇപ്പോൾ വീണ്ടും ഞാൻ ഈ mu 0 ഒഴിവാക്കുന്നു അങ്ങനെ ഇത് 2 mu 0 K K ഡോട്ട് ആയി വരുന്നു അതാണ് ഇവിടെയുള്ള ഊർജപ്രവാഹം അതായത് സിസ്റ്റത്തിനു പുറത്തേക്ക് പോകുന്ന ഊർജ്ജം S10EB10a02dKdt0Kna20KdKdtn ഞാൻ വീണ്ടും ഒരു നീളം L എടുത്ത് K 0 ആയി മാറിയപ്പോഴേക്കും എത്ര ഊർജ്ജം പുറത്തേക്ക് ഒഴുകിയെന്നു നോക്കുകയാണ് പുറത്തേക്ക് ഒഴുകുന്ന ഊർജ്ജം S ഡോട്ട് d s ആയിരിക്കും d s ൻറെ ദിശ പുറത്തേക്ക് ആയിരിക്കും അപ്പോൾ പുറത്തേക്കുള്ള ഊർജ്ജപ്രവാഹം a by 2 mu 0 K K ഡോട്ട് ഡോട്ട് d s 2 പൈ a l അതാണ് ഈ സിലിണ്ടർ ഉപരിതലത്തിന്റെ വിസ്തീർണ്ണം ഇതിൽ 2 ഒഴിവാക്കുന്നു അപ്പോൾ എനിക്ക് പൈ a സ്ക്വയർ mu 0 K dot K l ലഭിക്കുന്നു ഇവിടെ പൈ a സ്ക്വയർ l എന്നത് മുഴുവൻ വോളിയം ആണ് അതിനാൽ ഈ വോളിയം v മടങ്ങ് mu 0 d by d t ഓഫ് K ഡോട്ട് സ്ക്വയർ by 2 ആണ് പുറത്തേക്ക് ഒഴുകുന്ന ഊർജ്ജം 0ddt അപ്പോഴേക്കും ഈ K 0 ആയിത്തീരുന്ന ആ സമയത്ത് ആകെ പ്രവഹിച്ച ഊർജ്ജം ഇൻറഗ്രൽ S ഡോട്ട് d S ന്റെ d t എന്നത് ഇൻറഗ്രൽ dt v mu 0 d by d t K സ്ക്വയർ ആയിരിക്കും ഇത് v mu 0 K സ്ക്വയർ by 2 ന് തുല്യമായി വരുന്നു ഇതാണ് കറൻറ് സാന്ദ്രത K യിൽ നിന്ന് 0 ആകുമ്പോഴേക്കും പുറത്തേക്ക് ഒഴുകുന്ന ഊർജ്ജം ആകെ ഊർജ്ജംdt S dSdt V 0K22 തുടക്കത്തിൽ എത്രത്തോളം ഊർജ്ജമാണ് സംഭരിച്ചിരുന്നത് കാന്തിക മണ്ഡലത്തിലെ ഊർജ്ജ സാന്ദ്രത 1 ഓവർ 2 mu 0 തവണ B സ്ക്വയർ ആണ് ഇത് mu 0 സ്ക്വയർ K സ്ക്വയർ ഓവർ 2 mu 0 ആയിരിക്കും അതായത് mu 0 K സ്ക്വയർ by 2 അങ്ങനെ വോളിയം v യിലെ മൊത്തം ഊർജ്ജം v mu 0 K സ്ക്വയർ by 2 ന് തുല്യമായിരുന്നു അത് ഇപ്പോൾ പോയിന്റിംഗ് വെക്റ്റർ വഴി ഉപരിതലത്തിലൂടെ പുറത്തേക്ക് പോയി അതിനാൽ d w by d t പ്ലസ് d by d t E ഇലക്ട്രോമാഗ്നെറ്റിക് എന്നത് ഇൻറഗ്രൽ S ഡോട്ട് d S ന് തുല്യമാണ് ഈ സാഹചര്യത്തിൽ d w by d t എന്നത് 0 ആണ് ഈ രണ്ടാമത്തെ പദമാണ് അവസാനം 0 ആകുന്നത് പോയിന്റിംഗ് വെക്റ്റർ വഴി ഊർജ്ജം പുറത്തേക്ക് ഒഴുകുന്നു ഊർജ്ജ സാന്ദ്രത120B202K2200K22 ആകെ ഊർജ്ജംV0K22 അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നത് വൈദ്യുതകാന്തിക മണ്ഡലമാണ് അവ ഒരുമിച്ച് നിലനിൽക്കുമ്പോൾ ഊർജ്ജം ഒഴുകുന്നു ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ എടുത്തു അവിടെ ഒരു സാഹചര്യത്തിൽ മെക്കാനിക്കൽ ഊർജ്ജം കൊണ്ടുവന്നത് പോയിന്റിംഗ് വെക്റ്റർ ആയിരുന്നു മറ്റു ഉദാഹരണത്തിൽ തുടക്കത്തിൽ ഒരു വൈദ്യുതകാന്തിക ഊർജ്ജമായി സംഭരിക്കപ്പെട്ട ഊർജ്ജം ഒരു വോളിയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു